ഹലോ എല്ലാവർക്കും സോഫ്റ്റ് സ്കിൽസ് വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനുള്ള എൻ എൽ മൂക്ക് കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ കാന്പൂരിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള പ്രൊഫസർ ടി രവിചന്ദ്രനാണ് നമ്മൾ ഈ കോഴ്സിന്റെ മൂന്നാം ആഴ്ചയിലാണ് നമ്മൾ ഏകദേശം മൂന്നാം ആഴ്ചയുടെ മധ്യത്തിലാണ് ഈ ആഴ്ച ഇതിനകം മൂന്ന് പ്രഭാഷണങ്ങൾ ശീലങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശീലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ രൂപീകരിക്കുന്ന ശീലമാണ് നിങ്ങളുടെ കാരിയറിനെയും നിങ്ങളുടെ ജീവിതത്തെയും കൂടുതൽ പങ്ക് വഹിക്കാൻ പോകുന്നത് അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട ശീലങ്ങളെക്കുറിച്ചും അവയെക്കുറിച്ചുമാണ് പ്രത്യേകിച്ച് മോശം ശീലങ്ങൾ തകർക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് വൈകാരികമായി ആവശ്യപ്പെടുന്ന വൈകാരിക വേർപിരിയലുകൾ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്തതിനാൽ ഞാൻ ഈ മൊഡ്യൂളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ ദ്രുത ഹൈലൈറ്റുകൾ നമുക്ക് എടുക്കാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൻറെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ശീല രൂപീകരണത്തിന്റെ കലമാണ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിലും രാവിലെയും അവസാനവും വരെ നിങ്ങൾ ചെയ്യുന്ന ആദ്യകാര്യം അവസാനം വരെ നിങ്ങൾ അതിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന രീതി എഴുന്നേറ്റതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സംഗീതം കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ നടക്കുകയോ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുവെച്ചാൽ മെയിലുകൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഫെയ്സ് ബുക്കിലോ വാട്ട്സ്ആപ്പിലോ അപ്ഡേറ്റുകൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കോളുകൾ ചെയ്യുകയോ ചെയ്യുന്നു നിങ്ങൾ എഴുന്നേറ്റയുടനെ നിങ്ങൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും വെറും ശീലങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കോളേജിലേക്ക് പോകുന്ന വഴി പോലും നിങ്ങൾക്ക് ഒരേ റൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തരം ശീലമായി മാറുന്നു തുടർന്ന് നിങ്ങൾ അത് വീണ്ടും വീണ്ടും തുടരുന്നു എന്നിട്ട് നിങ്ങൾ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ താഴേക്ക് അഭിമുഖമായി ഉറങ്ങാൻ എത്ര തലയിണകൾ ഉപയോഗിക്കുന്നു ഉറങ്ങുമ്പോൾ നിങ്ങൾ സ്വയം മറയ്ക്കുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ നിങ്ങൾ എങ്ങനെ കിടക്കയുടെ വശത്ത് കിടക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് എന്നാൽ പിന്നീട് പതുക്കെ അത് രൂപപ്പെടാൻ തുടങ്ങി പിന്നെ കിടക്കയിൽ കിടക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ചലനങ്ങൾ നടത്തേണ്ടതുണ്ടോ നിങ്ങൾക്ക് ഉറക്കം തോന്നാൻ നിങ്ങളുടെ ശരീരം കുലുക്കേണ്ടതുണ്ടോ നിങ്ങൾക്ക് ഉറക്കം അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷ്ക്രിയമായി ഓർമ്മിപ്പിക്കാൻ കഴിയുമോ തുടർന്ന് നിങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നുണ്ടോ നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ഉറക്കത്തിലായിരിക്കുകയോ ചെയ്യുമോ പിന്നെ ഞാൻ ശീലചക്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ചിന്തയ്ക്കോ ഉത്തേജനത്തിനോ വേണ്ടിയാണ് ആരംഭിക്കുന്നത് തുടർന്ന് നിങ്ങൾ അതിന് നൽകുന്ന പ്രവർത്തന പ്രതികരണത്തോടെ തുടരുകയും തുടർന്ന് നിങ്ങൾക്ക് ഒരു പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശീലം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും നിർണ്ണയിക്കുന്നത് ജീവിതത്തിലെ നിങ്ങളുടെ വിജയത്തിനോ പരാജയത്തിനോ കാരണമാകുന്ന മറ്റൊരു പ്രവൃത്തിയിലൂടെയോ പ്രതികരണത്തിലൂടെയോ നിങ്ങൾ ഇത് വീണ്ടും ശക്തിപ്പെടുത്തുന്നു ഒരുപാട് മോശം ശീലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന മാറ്റം വരുത്താനുള്ള തീരുമാനത്തെക്കുറിച്ചും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് നിങ്ങൾക്ക് തീരുമാനം നൽകുക അതിനാൽ ആ മത്സരത്തിൽ ഞാൻ ആർകെ നാരായണൻ്റെ ഗൈഡിൽ നിന്നുള്ള ചെറിയ കഥയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അതിൽ രാജു എന്ന കഥാപാത്രം സെനറിൽ നിന്ന് നിങ്ങളുടെ മോഡ് ടയറിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു തന്റെ ജീവിതത്തിന്റെ പതിറ്റാണ്ടുകൾ ഒരു കള്ളനെപ്പോലെ ഒരു സെനറായി ചെലവഴിച്ചതിനുശേഷവും ഇപ്പോൾ ആ പരിവർത്തനം അദ്ദേഹത്തിന് വരുന്നു ഒരു കള്ളനെന്ന നിലയിൽ സെനറിൻറെയും അവൻ പോലും കുറച്ച് സമയം ജയിലിൽ ചെലവഴിക്കുന്നു അത് വളരെ നിർണായകമായ ഒരു പ്രസ്ഥാനത്തിൽ വരുന്നു അതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠങ്ങൾ ആ സാഹചര്യമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ചിലത് ഉണ്ടാക്കുകയും അത് അവനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നല്ല അതിനാൽ നിങ്ങൾ ഒരു സെനറ്റർ ആകുന്നുണ്ടോ എന്ന് നിങ്ങളെ അറിയിക്കുന്നത് സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ അത് നിങ്ങളിലുള്ള ആന്തരികതയെ വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ഉള്ളിലെ അന്തർലീനമായ മൂല്യത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള മാറ്റവും അത് എന്നെന്നേക്കുമായി നിലനിൽക്കും പിന്നെ എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് ആധുനിക എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഉപസംഹരിച്ചു മനുഷ്യനെക്കുറിച്ചും വില്യം ഗോൾഡിംഗിനെക്കുറിച്ചും ഉള്ള ഒരുതരം ഗൂമി കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഈച്ചയുടെ കീയിൽ മൃഗം നമ്മുടെ ഉള്ളിലാണെന്ന് അതായത് എല്ലാ മൃഗഗുണങ്ങളും എല്ലാ ചീത്ത ഗുണങ്ങളും തിന്മയും എല്ലാ ഗുണങ്ങളും നമുക്കുള്ളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ നാരായൺ ഉപസംഹരിച്ചു നോവലിൽ അദ്ദേഹം ദൈവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതായി തോന്നുന്നു അതിനാൽ ദൈവവും മൃഗവും മൃഗങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള മെറ്റാഫൈൽ ആണ് അതിനാൽ മോശം ശീലങ്ങളും നല്ല ശീലങ്ങളും രൂപപ്പെടുത്താനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ചിലർക്ക് അവരുടെ സ്വഭാവം മാറ്റാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന അടിസ്ഥാന ചോദ്യം ഇപ്പോൾ വിശകലനം ചെയ്യാം ഒരു രാജുവിനെപ്പോലെ ഒരു മിന്നൽ നിമിഷത്തിലെ ശീലങ്ങൾ മാറ്റാൻ അദ്ദേഹം തീരുമാനിക്കാൻ ഇവ രണ്ടും എടുത്തെങ്കിലും എന്നാൽ അപ്പോഴും നിങ്ങൾക്ക് താൻ ശീലിച്ചിരുന്ന ഒരു ശീലം മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഗ്രേവിങ് നിയന്ത്രിക്കാൻ മറ്റുള്ളവർക്ക് പ്രായമാകുമ്പോൾ അത് ചെയ്യാൻ കഴിയില്ല വർഷങ്ങളോളം ശ്രമിച്ചിട്ടും അവർക്ക് മാറാൻ കഴിയുന്നില്ല ചില ആളുകൾ മിന്നലിൽ ഒരു സെക്കൻഡിൽ ഞാൻ മാറുമെന്ന് അവർ കരുതുന്നു ഞാൻ മാറും തുടർന്ന് അവർ തികച്ചും മാറുന്നു പിന്നെ അവർ പൂർണ്ണമായും മാറുന്നു ഇപ്പോൾ എന്താണ് ഉത്തരവാദിത്തം ഉത്തരത്തിൽ കിടക്കുന്ന ഉത്തരം ഡോപാമൈൻ എന്ന് വിളിക്കുന്ന ഒന്നാണ് അതിനാൽ ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നതിനുമുമ്പ് അവർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ മാറ്റം വരുത്താൻ കഴിയും അവർക്ക് ആവശ്യമുള്ളത് അത് സ്വയം അവബോധത്തിന്റെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അവർ എത്രത്തോളം ബന്ധത്തിലാണ് ആമുഖ ആഴ്ചയിൽ തന്നെ പ്രഭാഷണങ്ങളിലൊന്ന് വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിങ്ങളുടെ യോഗ്യത പോരായ്മകൾ ധാരണ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ സ്വയം അവബോധം എന്താണ് യഥാർത്ഥത്തിൽ നല്ലത് എന്താണ് ശരിക്കും ചീത്ത നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഇപ്പോൾ ചില ആളുകൾ ഒരു മോശം ശീലം ശരിയായി മനസ്സിലാക്കുന്ന ധാരണകളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഒരു മോശം ശീലമുണ്ട് അത് ശരിക്കും ദോഷകരമാണെന്ന് അവർക്കറിയാം എന്നാൽ ചിലർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല ഇത് ഒരു മോശം ശീലമാണെന്നും പിന്നീട് ചെറിയ നേട്ടങ്ങളോ പ്രതിഫലങ്ങളോ ഉണ്ടായിരുന്നിട്ടും അവർക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്നും ഈ ഹ്രസ്വ നേട്ടത്തിൽ നിന്ന് പുറത്തുവന്ന് ദീർഘകാല പ്രതിഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ ഈ പ്രതിഫലങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ തലച്ചോറിന്റെ ഈ കലം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഡോപാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോശം ശീലങ്ങൾ കൂടുതലോ കുറവോ നിയന്ത്രിക്കാനും ഇപ്പോൾ നല്ല ശീലങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കാനും കഴിയും പ്രചോദനവും പ്രതിഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യ മസ്തിഷ്കത്തിന്റെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപാമൈൻ അതിനർത്ഥം അത് പ്രചോദനത്തിനും പ്രതിഫലത്തിനും ഉത്തരവാദിയാണെന്നും അത് നമ്മെ പ്രചോദനം എന്നും വിളിക്കുന്നു തന്മാത്ര യഥാർത്ഥത്തിൽ ആനന്ദം ഉളവാക്കുന്ന രാസവസ്തുവാണ് നിങ്ങൾ ഒരു നേട്ടം കൈവരിച്ചു എന്ന തോന്നൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ തലച്ചോറിൽ എന്തോ പൊട്ടിത്തെറിക്കുകയും അത് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്ന വിധത്തിൽ പോലും ലോട്ടറി നിങ്ങൾ ഇപ്പോൾ സന്തുഷ്ടരാണെന്ന് പറയുന്നു അതിനാൽ നിങ്ങൾ പോയി സല്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക അത് ആളുകൾക്ക് നൽകുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷം തോന്നുമ്പോഴെല്ലാം അത് പുറത്തിറങ്ങുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ ഡോപാമൈൻറെ രസകരമായ ഭാഗം നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും അത് പുറത്തുവരുന്നു എന്നതാണ് ഒരു നല്ല ശീലത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ അല്ലെങ്കിൽ ഒരു മോശം ശീലത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ ആയതിനാൽ അത് ഇപ്പോൾ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല നമുക്ക് ഡോപാമൈനെക്കുറിച്ച് അറിയാം കാരണം ഇത് വീണ്ടും ആസക്തി ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു നല്ലതോ ചീത്തയോ ആകട്ടെ അത് രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു പ്രത്യേകിച്ച് മോശം ശീലങ്ങളുടെ കാര്യത്തിൽ ചില മരുന്നുകൾ അതിന്റെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു അതിനാൽ അവയുടെ ഉപയോഗം ചില മരുന്നുകൾ യഥാർത്ഥത്തിൽ തലച്ചോറിലെ ഡോപാമൈൻ സ്രവത്തിന് കാരണമാകുന്നു ഇത് ഉയർന്ന അളവിലേക്ക് നയിക്കുന്നു പ്രവർത്തനവും ആനന്ദവും ഉണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഉല്ലാസാവസ്ഥയിലാണ് ഡോപാമൈൻ ഉണ്ടാക്കുന്ന ചില മരുന്നുകൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ആ ഉല്ലാസാവസ്ഥ അനുഭവപ്പെടുന്നു പക്ഷേ അത് നയിക്കുന്നു ഇത് വിഷാദത്തിന് കാരണമാകുകയോ ഊർജ്ജം മന്ദഗതിയിലാക്കുകയോ ചെയ്യും കാരണം ഇത് ചെയ്യുന്നത് തലച്ചോറാണ് ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ തേടാൻ വേഗത്തിൽ പഠിക്കുക ഈ ഡോപാമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം മരുന്ന് നിങ്ങൾക്ക് ശീലമായതിനാൽ ആസക്തി എന്നാണ് ഇതിനർത്ഥം എന്നിട്ട് നിങ്ങൾക്ക് ആ ആഹ്ലാദകരമായ വികാരം നൽകുന്നു അത് പിൻവലിക്കുന്നത് നിങ്ങളെ പ്രേരിപ്പിക്കും ചില സമയങ്ങളിൽ ഊർജ്ജക്കുറവ് അനുഭവപ്പെടുന്നു ചില സമയങ്ങളിൽ തളർച്ച അനുഭവപ്പെടുന്നു അതിനാൽ മസ്തിഷ്കം അന്വേഷിക്കാൻ തുടങ്ങുന്നു ഈ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന മയക്കുമരുന്നുകളുടെ രാജാവിനോട് സജീവമായി പെരുമാറുന്നതിനാൽ അതാണ് പ്രശ്നം തലച്ചോറിനൊപ്പം പിന്നെ ഒരിക്കൽ നിങ്ങൾ വീണ്ടും വീണ്ടും മയക്കുമരുന്നിന് പോകുമ്പോൾ നിങ്ങൾ അത് ആസക്തിയുള്ളതാക്കുന്നു മോശം പെരുമാറ്റം എന്തുകൊണ്ടാണ് ഡോപാമൈൻ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും എന്നാൽ പ്രചോദിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ തേടുന്നത് നിങ്ങൾ അസുഖകരമായ അനുഭവങ്ങൾ ഒഴിവാക്കാൻ ഒരു വശത്ത് അത് നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് സന്തോഷം നൽകും പക്ഷേ അസുഖകരമായ അനുഭവം ഒഴിവാക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ജോലി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ബോസ് നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നു അതിനാൽ സഹപ്രവർത്തകർ നിങ്ങളോട് മയക്കുമരുന്ന് കഴിക്കാൻ പറയുന്നു നിങ്ങൾ ഈ പാനീയം കഴിക്കുന്നു അതിനാൽ നിങ്ങൾ മേലധികാരിയെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം നിങ്ങളോട് അലറുന്നതിനാൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടില്ല അതിനാൽ നിങ്ങളെക്കുറിച്ച് വളരെ സെൻസിറ്റീവ് അനുഭവപ്പെടില്ല നിങ്ങളെക്കുറിച്ച് വളരെ സെൻസിറ്റീവ് തോന്നുന്നു അത് നിങ്ങളെ വേദനിപ്പിക്കില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു അസുഖകരമായ അനുഭവം ഒഴിവാക്കുക അതിനാൽ വീണ്ടും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് അത് നിർമ്മിക്കാൻ ശ്രമിക്കുക അതിനാൽ മോശം ശീലങ്ങൾ അല്ലെങ്കിൽ സാധാരണയായി ആനന്ദം തേടാൻ എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ രൂപപ്പെടുന്നു അതിലൂടെ നിങ്ങൾക്ക് വേദനാജനകമോ വിയോജിപ്പുള്ളതോ ആയ അനുഭവങ്ങൾ ഒഴിവാക്കാനും കഴിയും ഇപ്പോൾ നമുക്ക് ഡോപാമൈനിനെക്കുറിച്ചും അതിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം പ്രത്യേകിച്ചും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഈ ആസക്തി സ്വഭാവം രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അത് അസാധ്യമല്ല ഉദാഹരണത്തിന് ദുഃഖകരവും വിഷാദകരവുമായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ദുഷ്കരമായ സമയങ്ങളിൽ ആയിരിക്കുമ്പോൾ പോലും ആനന്ദം തേടരുതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക അവ സാധാരണമാണെന്നും നമുക്ക് അനന്തമായ സമയമുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സമയങ്ങളുടെ സന്തോഷം അനുഭവിക്കേണ്ടതുണ്ടെന്നും അവധിദിനങ്ങളിൽ നിങ്ങൾക്ക് അവരോട് അസുഖം തോന്നുകയും നിങ്ങൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവധിയില്ലാതെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവധിദിനങ്ങൾക്കായി ദീർഘനേരം കാത്തിരിക്കുകയാണെങ്കിൽ ജീവിതം ഒരു തികഞ്ഞ കാര്യമാണ് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്രണം അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തിനായി മാത്രം അന്വേഷിക്കുകയാണെങ്കിൽ സന്തോഷവും നിങ്ങൾക്ക് ദുഃഖം ഒഴിവാക്കണമെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കും നിങ്ങളിൽ ഡോപാമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ മോശം ശീലങ്ങൾ അതിനാൽ അത് ദുഃഖകരവും വിഷാദകരവുമാണെന്ന് അംഗീകരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ തരങ്ങൾ അല്ലെങ്കിൽ കലം ഒരു പ്രധാന കാര്യമാണ് അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം തുടർന്ന് വലിയ വേദനയായ വേദന അനുഭവത്തെ തീവ്രമാക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം പിന്നീട് വരുന്ന ആനന്ദത്തിൻറെ വലിയ ദുഃഖം നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകൂ സന്തോഷത്തിന്റെ അളവ് അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ വേദന അനുഭവിക്കാൻ മുമ്പ് വലിയ വേദന അനുഭവിക്കാൻ അനുവദിക്കുക സന്തോഷം പിന്നീട് നമ്മുടെ തലച്ചോറിനോട് സ്വയം പറയുമ്പോൾ ആളുകൾ ഞങ്ങളെ സ്വയം ഹിപ്നോസിസ് എന്ന് വിളിക്കുന്നു എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നല്ലത് ഒരു ജോലി എളുപ്പമാണ് എന്തെങ്കിലും നമുക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അസന്തുഷ്ടനായിരിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് നമ്മുടെ തലച്ചോറിനോട് പറയുന്നു കാരണം നിങ്ങൾക്ക് അത് പറയാൻ കഴിയും എനിക്ക് അത് വേണം അങ്ങനെ എനിക്ക് പിന്നീട് സന്തോഷം അനുഭവിക്കാൻ കഴിയും അതിനാൽ ഇത് രസകരമാണ് ഞാൻ അസന്തുഷ്ടനാണ് ഞാൻ വിഷാദത്തിലാണ് എന്നാൽ പിന്നീട് വരുന്ന സന്തോഷകരമായ ചലനം ആസ്വദിക്കാൻ ഞാൻ അത് അനുഭവിക്കും ഞാൻ വിഷാദരോഗിയാണെന്ന് ചിന്തിക്കുന്നതിനുപകരം ഞാൻ മയക്കുമരുന്നിന് പോകും അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യില്ല ജോലി ഞാൻ നിർത്തും ഞാൻ ഒറ്റയ്ക്ക് നടക്കും ഞാൻ എന്നെത്തന്നെ പ്രകാശിപ്പിക്കും തുടർന്ന് ഞാൻ ഒന്നും ചെയ്യില്ല ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത കാര്യം നിങ്ങൾ ശാന്തവും ശാന്തവുമായി തുടരുമെന്ന് മനസ്സിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പരീക്ഷണ സമയം ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പറയുന്ന ചലനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഡിസ്ക് ചെയ്യുക ഞാൻ ശാന്തനും ശാന്തനുമായിരിക്കും ഒന്നും നിങ്ങളെ ബാധിക്കില്ല മൊത്തത്തിൽ ഒരു സംതൃപ്തി ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഭാവിയിലേക്കുള്ള അർത്ഥവത്തായ ജീവിതവും അതുവഴി ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ തലച്ചോറിനെ പ്രേരിപ്പിക്കും അത് നിങ്ങളെ മോശം ശീലങ്ങൾ വളർത്തിയെടുക്കുകയും പിന്നീട് ദീർഘകാലാടിസ്ഥാനത്തിൽ അവരെ അടിമകളാക്കുകയും ചെയ്യും അതിനാൽ ചില മോശം ശീലങ്ങൾ ഉപയോഗിച്ച് ഡോപാമൈൻ ഉത്പാദിപ്പിക്കാനുള്ള നെഗറ്റീവ് പ്രവണത ഉണ്ടാകുമ്പോഴെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മുമ്പ് വൈകാരികമായ വേർപിരിയലുകളിൽ നിന്ന് സാധാരണയായി ഉണ്ടാകുന്ന അസന്തുഷ്ടിയിൽ നമുക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഞാൻ ഇതിലേക്ക് പോകുന്നു ഞങ്ങളുടെ മനുഷ്യന്റെ മറ്റൊരു രസകരമായ മാനസിക വശം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തലച്ചോറും ഒരു ദൌത്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അതിന്റെ പ്രവണതയും പൂർത്തിയാക്കുന്നില്ല സീഗാർനിക് പ്രഭാവം എന്ന് വിളിക്കുന്ന ഈ പദം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സീഗാർനിക് പ്രഭാവം അത് പൂർത്തിയാക്കേണ്ടതിന്റെ നിർബന്ധിത ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു അത് നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത പോലെ അത് നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഒരു ടാസ്ക് ആരംഭിച്ചുകഴിഞ്ഞാൽ അത് പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇത് പൂർത്തിയാകാത്തതിനാൽ തലച്ചോറിലെ നുഴഞ്ഞുകയറ്റ ചിന്തകളിലേക്ക് നയിക്കുന്നു അത് സംഭവിക്കുമ്പോൾ മാത്രമേ നിർത്താൻ കഴിയൂ ഒരാൾ ജോലി പൂർത്തിയാക്കാൻ മടങ്ങിയെത്തുന്നു അതായത് നിങ്ങൾ ഒരു ജോലി ആരംഭിക്കുകയും തുടർന്ന് അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇതിനിടയിൽ എവിടെയെങ്കിലും പോയി ഈ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മറ്റേതെങ്കിലും ടാസ്ക് ആരംഭിക്കുന്നു പൂർത്തിയാകാതെ അവശേഷിച്ച ആദ്യത്തേത് വരും നിങ്ങളുടെ തലച്ചോറിനെ ഉയർത്തും നിങ്ങൾ തിരിച്ചുപോയി നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ജോലി പൂർത്തിയാക്കുന്നതുവരെ വരിക നിങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു ജോലിയെ ഈ പ്രഭാവം ഈ സീഗാർനിക് പ്രഭാവം എന്ന് വിളിക്കുന്നു പൂർത്തിയാകാത്ത ജോലികൾ നിങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ നിങ്ങളുടെ മനസ്സിൽ തുടരും ഇപ്പോൾ അതുകൊണ്ടാണ് വൈകാരികമായ വേർപിരിയലുകൾ ദീർഘകാല അസന്തുഷ്ടിയുടെ കാരണങ്ങൾ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അവസ്ഥയാണെന്ന് പറയാം പോലുള്ള നിരവധി ജോലികൾ പരസ്പരം സ്നേഹിക്കുകയും പിന്നീട് അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അവർ വിവാഹിതരായിരുന്നുവെന്ന് പറയാം ഏകദേശം മൂന്ന് വർഷമായി ഒരു ബന്ധം അവർ ആസൂത്രണം ചെയ്ത നിരവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു കുട്ടികൾ ഉണ്ടാകാൻ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു അവർ ഒരുതരം വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു കാർ ഇപ്പോൾ ഒരുമിച്ച് ചെയ്ത ഈ ആസൂത്രണമെല്ലാം ജീവിതകാലം മുഴുവൻ മാനസികമായി ചെയ്തതാണ് ഇതിനകം ആരംഭിച്ച ചില കാര്യങ്ങളും ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ എന്തിനും വിട്ടുപോകാൻ തീരുമാനിക്കുന്ന ദിവസം അവ അപൂർണ്ണമായി തുടരുന്നു ഒരാൾ മറ്റൊരാളെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ മറ്റേയാൾ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിച്ചത് എന്ന് ആ പെൺകുട്ടി ചിന്തിക്കുന്നു കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്ന പെൺകുട്ടി കൂടുതൽ ബുദ്ധിമാനാണോ അതോ ഞാൻ അവനെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ലേ ഇപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നിരപരാധികളായ ഈ സീഗാർനിക് പ്രഭാവം സംഭവിക്കുന്നു ചിന്തകൾ തിരിച്ചുപോകുന്നു ചെയ്തതോ അവശേഷിക്കുന്നതോ ആയ നിരവധി വാഗ്ദാനങ്ങൾ കാരണം പഴയ പ്രസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ആരാണ് ഈ പദം നൽകിയത് എന്നത് അപൂർണ്ണമാണ് അതിനാൽ ഇത് റഷ്യൻ സൈക്കോളജിസ്റ്റായ ബ്ലുമ സൈഗാർനിക് ആണ് അവളുടെ പത്തൊൻപത് ഇരുപത്തിയേഴ് ഡോക്ടറൽ തീസിസിൽ സീഗാർനിക് പ്രഭാവം വിവരിച്ചു തുടർന്ന് സൈക്വിക്കി കോമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലളിതമായ നിർവചനം സൈഗാർനിക് ഇഫക്റ്റ് ആണെന്ന് പറയുന്നു ഒരിക്കൽ മനസ്സിലാക്കിയതിനെക്കുറിച്ചും വസ്തുനിഷ്ഠമായതിനെക്കുറിച്ചും നുഴഞ്ഞുകയറുന്ന ചിന്തകൾ അനുഭവിക്കുന്നതിനുള്ള പ്രവണത അപൂർണ്ണമായി അവശേഷിക്കുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം ബോധപൂർവമായ മനസ്സിനെ സൂചിപ്പിക്കുന്നു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം മുമ്പത്തെ ഒരു പ്രവർത്തനം അപൂർണ്ണമായി അവശേഷിച്ച പുതിയ ലക്ഷ്യങ്ങൾ അത് മനുഷ്യപ്രകൃതമാണെന്ന് തോന്നുന്നു നാം ആരംഭിക്കുന്നത് പൂർത്തിയാക്കുകയും അത് പൂർത്തിയായിട്ടില്ലെങ്കിൽ വൈരുദ്ധ്യം അനുഭവപ്പെടുകയും ചെയ്യുന്നു നമ്മൾ പൂർണ്ണമായും അസ്വസ്ഥരാണെന്ന് എത്രപേർക്ക് തോന്നുന്നു അതിനാൽ നമ്മൾ വൈകാരികമായി മാനസികമാണ് നമ്മെയും ചിന്തകളെയും ബുദ്ധിമുട്ടിക്കുന്ന എന്തോ ഉണ്ടെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് ശാരീരികമായി തോന്നുന്നു ഓ അത് ഇപ്പോഴും അവശേഷിക്കുന്നില്ലെന്നും നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞ് അവ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു പൂർത്തിയായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ കൂടുതൽ ഓർക്കുക അത് മറ്റൊന്നാണ് അപൂർണ്ണമായത് എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുമെന്ന് ഈ സീഗാർനിക് ഇഫക്റ്റിന്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾ പൂർത്തിയാക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ അപൂർണ്ണമായ പ്രവർത്തനങ്ങൾ ചെയ്യുക നിങ്ങൾ പൂർത്തിയാക്കിയ ജോലി പോലും നിങ്ങൾ ഓർക്കുന്നില്ല ഇപ്പോൾ വൈകാരികമായ വേർപിരിയലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഡോപാമൈൻ എങ്ങനെ ചെയ്യാം നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ വൈകാരികമായ വേർപിരിയലിനെ പൂർത്തിയാകാത്ത ഒരു ജോലിയായി കണക്കാക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെയും കരിയറിന്റെയും അവസാനം വരെ ഒരു പ്രത്യേക പങ്കാളി ഒരു വീട് വാങ്ങുന്നു അവർ പോയി പണം പോലും നൽകി അവർ എങ്ങനെ തവണകൾ അടയ്ക്കുമെന്ന് തീരുമാനിച്ചു ശരി ഇപ്പോൾ അവരിൽ ഒരാൾ വിവാഹമോചനം എടുക്കാൻ തീരുമാനിക്കുന്നു ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അതിൻ്റെ മേലാണ് ആ വ്യക്തി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നതുവരെ മറ്റേ വ്യക്തി ശ്രമിക്കുന്നു വീട് കൈവശപ്പെടുത്തിയതിന് ശേഷവും വീട് കൈവശപ്പെടുത്തുക എന്നത് അവരുടെ ഒരേയൊരു സമയമായിരിക്കും ഇത് പൂർത്തിയാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പദ്ധതിയിട്ട ഒരു കാര്യമാണ് തുടർന്ന് അത് മറ്റുള്ളവരുടെ സംഭാവനയിൽ അപൂർണ്ണമായി തുടരുന്നു ഇപ്പോൾ ഇതാണ് വൈകാരികമായ വേർപിരിയലുകളിൽ നിന്ന് പുറത്തുവരാൻ പലർക്കും ബുദ്ധിമുട്ടാനുള്ള കാരണം എന്നാൽ എന്താണ് പരിഹാരം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എങ്ങനെ കൈകാര്യം ചെയ്യും ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ ഡോപാമൈൻ കാണുന്നു അതിന് ഒരു പ്രതീകാത്മക പൂർത്തീകരണം നൽകുക എന്നതാണ് ഏക പരിഹാരം അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നു ഉദാഹരണത്തിന് നൽകിയ വ്യക്തിയുടെ ഓർമ്മയെ പ്രേരിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെട്ട ചില വാഗ്ദാനങ്ങളോ ആസൂത്രണമോ ഉണ്ടെങ്കിൽ ജോലി പൂർത്തിയായതായി തലച്ചോറിന് തോന്നുന്ന തരത്തിൽ അത് കത്തിക്കാൻ കഴിയും ഇപ്പോൾ ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട് പൂർത്തീകരണത്തിന്റെ സന്ദേശം തലച്ചോറിലേക്ക് പോകുന്നു പാറ്റേണിംഗ് എന്നിട്ട് അത് തീരുമാനിക്കുന്നു ശരി ഇപ്പോൾ എനിക്ക് തടസ്സമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോകാം ശരി വാസ്തവത്തിൽ അതേ സ്ഥലത്തേക്ക് മടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതിനാൽ എവിടെയാണ് ശബ്ദമുണ്ടാക്കുക ദമ്പതികൾ അല്ലെങ്കിൽ പ്രണയികൾ മുമ്പ് പതിവായി വന്നതിനാൽ ഒരാൾ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ വീണ്ടും സന്ദർശിക്കുന്നു ഇടയ്ക്കിടെ ഒരുമിച്ച് നിൽക്കുന്നത് ഡോപാമൈൻ ആഗ്രഹത്തിനും തുടർന്നുള്ള അന്യവൽക്കരണത്തിനും കാരണമാകും അതിനാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും തടസ്സമില്ലാത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു മസ്തിഷ്കം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കാരണമാകുന്നത് പോലെയാണ് ഡോപാമൈൻ ആഗ്രഹം അല്ലെങ്കിൽ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് മടങ്ങുക അത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ അനുഭവപ്പെടും സന്തോഷത്തോടെ മടങ്ങുക ഒരു വികാരം നേടുക നിങ്ങളുടെ സന്തോഷകരമായ ചലനങ്ങൾ തിരികെ നേടുക അതിനാൽ നിങ്ങൾ അവരുടെ വഴിക്ക് പോകും സന്തോഷകരമായ ചലനങ്ങൾ പങ്കിടുന്ന വ്യക്തി അങ്ങനെയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്നുള്ള പിൻവലിക്കലും അന്യവൽക്കരണവും നിങ്ങൾക്ക് ആരുമായും സംസാരിക്കാൻ തോന്നുന്നില്ല കാരണം ആ പ്രത്യേക വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതിനാൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പുനഃക്രമീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു റൂട്ടിംഗ് ആരംഭിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുമായി അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ലക്ഷ്യമുണ്ട് ഉദാഹരണത്തിന് വിഷാദരോഗത്തിൻറെ സമയത്ത് നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുകയും തുടർന്ന് നിങ്ങൾ പൂർണ്ണമായും അമിതമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കൂടുമ്പോൾ നിങ്ങൾ സ്വയം വെറുക്കാൻ തുടങ്ങുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കാത്ത ശാരീരികമായി ആരെയെങ്കിലും സാമൂഹികമായി കാണുക കാരണം ആളുകൾ നിങ്ങളെ കളിയാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പുതിയ ലക്ഷ്യങ്ങൾ ഫിറ്റ്നസ് നിലനിർത്തുകയോ സൃഷ്ടിപരമായ എഴുത്ത് പരീക്ഷിക്കുകയോ ആകാം കവിതകൾ എഴുതുന്നത് ചലനത്തെ വളരെ മോശമാക്കുന്നു കാവ്യാത്മകമായി മനോഹരമായ ഒരു ചലനം അവതരിപ്പിക്കുകയും മറ്റുള്ളവരെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് ആ ചലനത്തോട് അനുഭാവം നൽകുകയും ചെയ്യുന്നു അങ്ങനെ പരിവർത്തനം നിങ്ങളെ വീണ്ടും ഉദാത്തമാക്കുകയും തുടർന്ന് തടസ്സമില്ലാത്ത എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യും അപൂർണ്ണമായി തോന്നുന്ന പ്രവർത്തനങ്ങൾ കാരണം ഇത് ഒരു പുതിയ കൂട്ടം ഡോപാമൈൻ പുറത്തുവിടുകയും ചെയ്യും ഓരോ തവണയും നിങ്ങളുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഒരു ചെറുകഥ എഴുതുമ്പോൾ ഒരു ലക്ഷ്യം കൈവരിക്കുന്നു ഓരോ തവണയും നിങ്ങൾ ഒരു കവിത എഴുതുമ്പോഴോ ഓരോ തവണയും നിങ്ങൾ ഒരു പെയിന്റിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുമ്പോഴോ പോലെ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുവെന്ന് കരുതുന്ന എന്തും ഒരു പുതിയ ഭാഷ നിങ്ങൾ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തും അതിനാൽ ഡോപാമൈൻ വരും നിങ്ങളുടെ രക്ഷയ്ക്കായി അത് ചെയ്യും തുടർന്ന് അത് ഒരു നല്ല അനുഭവം നൽകും എന്നാൽ മറ്റേയാൾ നിങ്ങൾക്കായി ചെയ്ത മോശം കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും നഷ്ടപ്പെട്ട സുഖകരമായ സമയങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കുമുള്ള ഡോപാമൈൻ ആഗ്രഹം ശരിയാണ് ഇപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ വേർപിരിയലുകൾ ഉണ്ടായാൽ നിഗമനത്തിലെത്താൻ ശ്രമിക്കുക അദ്ദേഹം പറയുന്ന ദലൈലാമയുടെ ഈ ചിന്തയോടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാതിരിക്കുന്നത് ഭാഗ്യത്തിന്റെ അത്ഭുതകരമായ ആഘാതമാണ് ഇപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വ്യക്തിയുടെ ബന്ധം വേണമെന്നോ ആണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾ കരുതുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ എന്നാൽ മറുവശത്ത് ദലൈലാമ പറയുന്നത് നിങ്ങൾ അത് ഓർക്കേണ്ടതുണ്ടെന്നാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാത്തത് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗ്യത്തിന്റെ അത്ഭുതകരമായ ആഘാതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ആ വ്യക്തിയെ ലഭിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം ഈ വഴിക്ക് നീങ്ങുമായിരുന്നില്ല ഞാൻ ഈ മറ്റൊരാളെ കണ്ടെത്തുമായിരുന്നില്ല ഞാൻ സംഭവിക്കാൻ ഉദ്ദേശിച്ച മറ്റൊരു വിധത്തിൽ ഞാൻ എന്റെ ജീവിതത്തെ മാറ്റില്ലായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിൽ നിന്നുള്ള മറ്റൊരു പ്രശസ്തമായ ഉദ്ധരണി ഓർമ്മിപ്പിക്കാൻ അദ്ദേഹം പറയുന്നു ചിലപ്പോൾ മുൻകൂട്ടി നോക്കൂ ഇത് മോശം സമയമാണ് അദ്ദേഹം പറയുന്ന പോരാട്ടത്തിന്റെ സമയങ്ങൾ നമ്മുടെതാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഏറ്റവും സന്തോഷവതിയായിരുന്നു പക്ഷേ ഞങ്ങൾ പോരാട്ടത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുകയായിരുന്നു അത് അത്തരം വിഷാദരോഗ ചലനമായിരുന്നുവെന്നും എന്നാൽ അതിൽ നിന്ന് പുറത്തുവരുമ്പോഴും നോക്കുമ്പോഴും ഒരിക്കൽ ചിന്തിച്ചുകഴിഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ സമയമാണെന്ന് തോന്നുന്നുവെന്ന് അദ്ദേഹം പറയുന്ന പോരാട്ടം ഈ രണ്ട് ചിന്തകളും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആദ്യം ശ്രമിക്കുക നിങ്ങളെ ആസക്തിയുള്ള ശീലങ്ങളിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു അത് നിർത്തി ഒരു നല്ല ശീലം ഉണ്ടാക്കുക റൂട്ടിംഗ് മാറ്റുക പാറ്റിംഗ് മാറ്റുക തുടർന്ന് നിങ്ങളുടെ തലച്ചോറിനെ റിവൈർ ചെയ്യാൻ ശ്രമിക്കുക തുടർന്ന് പുനരാരംഭിക്കുക അതിൽ നിന്ന് പുറത്തുവരാൻ ഡോപാമൈൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതിയ ജീവിതം അതിനാൽ ഈ തുടക്കത്തോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുക തുടർന്ന് നിങ്ങൾക്ക് എങ്ങനെ പുതിയ ശീലങ്ങൾ വികസിപ്പിക്കാം എന്നതുമായി ഞാൻ തുടരും അടുത്ത പ്രഭാഷണത്തിൽ ഈ സീഗാർനിക് ഇഫക്റ്റിനെക്കുറിച്ച് കൂടുതൽ ഈ വീഡിയോ കണ്ടതിന് നന്ദി